എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് I എന്ന ലെക്ചറിലേക്ക് സ്വാഗതം ഇതു ലെക്ചർ നമ്പർ 21 ഇന്ന് നമ്മൾ ഇന്റഗ്രൽ കാൽക്കുലസിനെക്കുറിച്ചും പ്രത്യേകിച്ച് ഇംപ്റോപർ ഇന്റഗ്രലുകളക്കുറിച്ചും സംസാരിക്കും ആദ്യം ഇംപ്റോപർ ഇന്റഗ്രലുകൾ അവതരിപ്പിക്കും തുടർന്ന് അത്തരം ഇന്റഗ്രലുകൾ എങ്ങനെ വിലയിരുത്താം എന്നതാണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം അതിനാൽ ഇവിടെ നമ്മൾ സാധാരണയായി പഠിക്കുന്ന പ്രോപ്പർ ഇന്റഗ്രലുകൾ ഉണ്ട് ഉദാഹരണത്തിന് പ്രോപ്പറാണ് ഈ ഇന്റഗ്രലിന്റെ a മുതൽ b വരെയുള്ള റേഞ്ച് പരിമിതവും ഇന്റഗ്രാന്റ്മാണെങ്കിൽ f x ഇവിടെ ഇന്റഗ്രാന്റ് ആണ് അത് ഈ a മുതൽ b വരെയുള്ള ലിമിറ്റിൽ x നായി ബൌണ്ടഡ് ചെയ്തിരിക്കുന്നു അതിനാൽ ഈ f ബൌണ്ടഡ് a b എന്നിവ രണ്ടും ഫൈനെയ്റ്റാണെങ്കിൽ ഇന്റഗ്രലിന്റെ റേഞ്ച് പരിമിതമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രൽ ഇംപ്റോപറാണെന്നു നമ്മൾ വിളിക്കുന്നു ഇംപ്റോപർ ഇന്റഗ്രൽസ് എന്താണെന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും ഇന്റഗ്രൽ ഇംപ്റോപറാണ് ഉദാഹരണമായി a ∞ യും അല്ലെങ്കിൽ b ∞ യും ആണെങ്കിൽ അവയിലൊന്ന് അടിസ്ഥാനപരമായി a ∞ അല്ലെങ്കിൽ b ∞ അല്ലെങ്കിൽ രണ്ടും a ∞ b ∞ ഒപ്പം ഇന്റഗ്രാന്റ് f a മുതൽ b വരെയുള്ള x ന്റെ റേഞ്ചിലെ ചില ഘട്ടങ്ങളിൽ ഇവിടെ അൺബൌണ്ടഡ് ആണ് അത്തരം സന്ദർഭങ്ങളെ നമ്മൾ ആദ്യ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് ഈ റേഞ്ചിലെ ഒന്നോ അതിലധികമോ പോയിന്റുകളിൽ ഈ f അൺബൌണ്ടഡ് ആണെങ്കിൽ a മുതൽ b വരെ രണ്ടാമത്തെ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രൽ എന്ന് നമ്മൾ വിളിക്കുന്നു അതിനാൽ ആദ്യ തരത്തിൽ a അല്ലെങ്കിൽ b എന്നാൽആണ് അല്ലെങ്കിൽ രണ്ടും ∞ മുതൽ എന്നാൽ ഇവിടെ f ആദ്യ തരത്തിലുള്ള ഇന്റഗ്രലിൽ ബൌണ്ടഡ് ആണ് അതേസമയം രണ്ടാമത്തെ തരത്തിലുള്ള ഇന്റഗ്രലിൽ f a b എന്നിവയ്ക്കിടയിൽ അൺബൌണ്ടഡ് ആണ് ഇവിടെ ഈ ഇന്റഗ്രലിന്റെ റേഞ്ച് a നിന്ന് b വരെ ഫൈനെയ്റ്റാണ് രണ്ട് തരം ഇന്റഗ്രലുകൾ നമ്മൾ ചേർക്കുമ്പോൾ രണ്ടാമത്തെ തരം അല്ലെങ്കിൽ മൂന്നാമത്തെ തരം ഇംപ്റോപർ ഇന്റഗ്രൽ കിട്ടുന്നു അതിനാൽ ഇവിടെയുള്ള റേഞ്ച്ലെ a അല്ലെങ്കിൽ b ∞ ആണ് അല്ലെങ്കിൽ രണ്ടും അതുപോലെതന്നെ ഇന്റഗ്രാൻറ് f x ന്റെ റേഞ്ച്നുള്ളിൽ ചില ഘട്ടങ്ങളിൽ അൺബൌണ്ടഡ് ആണ് ഇതിനെ ഇംപ്റോപർ ആയ മൂന്നാo തരം ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നു അതിനാൽ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഉണ്ട് അതിനാൽ ഇന്റഗ്രാൻറ് 0 മുതൽ 2 വരെയുള്ള x ന്റെ റേഞ്ച്നുള്ളിൽ ബൌണ്ടഡാണ് അതിനാൽ അത്തരം ഇന്റഗ്രലുകളെ പ്രോപർ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഉണ്ട് ഇവിടെ x ഡിനോമിനേറ്ററിലാണെന്നും ഈ x ന്റെ റേഞ്ച് 0 മുതൽ വരെയാണെന്നും ഒരാൾ ചിന്തിച്ചേക്കാം തുടർന്ന് ഇന്റഗ്രാണ്ടും അൺബൌണ്ടഡ് ആവാം പക്ഷേ ഇത് അങ്ങനെയല്ല കാരണം നമ്മൾ ഇവിടെ ലിമിറ്റ് പരിഗണിക്കുകയാണെങ്കിൽ ഇത് അതിനാൽ ഈ ലിമിറ്റ് പരിമിതമാണ് ലിമിറ്റ് 1 ആണ് അതിനാൽ ഇവിടെ x 0 ലേക്ക് പോകുമ്പോൾ ഈ ഇന്റഗ്രാൻഡിന്റെ ഫൈനെയ്റ്റ് മൂല്യം ആണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഇന്റഗ്രലിനെ പ്രോപ്പർ ഇന്റഗ്രൽ എന്ന് വിളിക്കും കാരണം ഇത് 0 മുതൽ 1 വരെ അൺബൌണ്ടഡാണ് ലിമിറ്റും പരിമിതമാണ് അതിനാൽ ഈ ഇന്റഗ്രൽ പ്രോപർ ഇന്റഗ്രൽ ആണ് ഇംപ്റോപർ ഇന്റഗ്രലിലേക്കു വരുന്നു ഉദാഹരണത്തിന് ഉണ്ട് ഇത് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ആദ്യത്തെ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രലാണ് കാരണം ഇവിടെ ലിമിറ്റിൽ ഒരു ഇൻഫിനിറ്റി കാണുന്നു എന്നാൽ ഏത് ഘട്ടത്തിലും ഇന്റഗ്രാൻറ് ബൌണ്ട് ചെയ്തിരിക്കുന്നു അതിനാൽ ഇത് ആദ്യ തരത്തിലുള്ള ഇന്റഗ്രലാണ് രണ്ടാമതായി ഇത് അതിനാൽ ഈ സാഹചര്യത്തിൽ റേഞ്ച് ഫൈനെയ്റ്റ് ആണ് എന്നാൽ x 1 ലേക്ക് അടുക്കുമ്പോൾ ഇവിടെ ഇത് അൺബൌണ്ടഡ് ആയി മാറുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ x അപ്പർ ലിമിറ്റ് a നെ സമീപിക്കുമ്പോൾ x അൺബൌണ്ടഡ് ആയി മാറുന്നു തുടർന്ന് ഇത് രണ്ടാമത്തെ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രലാണ് ഇത് ഇവിടെ മൂന്നാമത്തെ തരത്തിലുള്ള അല്ലെങ്കിൽ മിശ്രിത തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രലാണ് കാരണം ലിമിറ്റ് പരിധിയില്ലാത്തതാണ് അതിനാൽ ഇവിടെ നമുക്ക് മുകളിലെ ശ്രേണിയിൽ ആയ ഈ ഇന്റഗ്രന്റും ലേക്ക് പോകുന്നു കാരണം x 1 ലേക്ക് അടുക്കുന്നു 1 ഇന്റഗ്രൽ പരിധിയിലാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇന്റഗ്രാന്റും ആയി മാറുന്നു കൂടാതെ റേഞ്ച് ഫൈനെയ്റ്റ്മല്ല അതിനാൽ ഇത് മൂന്നാം തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രലിന്റെ ഇന്റഗ്രാൻറ് ആണ് അതിനാൽ അത്തരം ഇംപ്റോപർ ഇന്റഗ്രലുകളെ എങ്ങനെ വിലയിരുത്താം ആദ്യം നമ്മൾ ആദ്യ തരത്തിനായി ചർച്ച ചെയ്യും ഉദാഹരണത്തിന് ഉണ്ട് ഈ b ലേക്ക് പോകുന്നുവെന്ന് കരുതുക അതിനാൽ ഇത് ആദ്യ തരത്തിലുള്ള ഇന്റഗ്രലാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ a മുതൽ R വരെയുള്ള ഇന്റഗ്രൽ പരിഗണിക്കും അതിനാൽ b യെ R ഉപയോഗിച്ച് മാറ്റുകയും പിന്നീട് നമ്മൾ ഈ R എടുക്കുകയും ചെയ്യുന്നു ഇത് ആദ്യ തരത്തിലുള്ള ഇന്റഗ്രൽ ആണ് ഇത് വിലയിരുത്തുന്നതിന് പകരം R ഉപയോഗിക്കും പിന്നീട് ഈ ഇന്റഗ്രൽ വിലയിരുത്തുന്നതിന്ശേഷം ഈ ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ ഇത് ഈ ഇന്റഗ്രലിന്റെ അല്ലെങ്കിൽ ഇന്റഗ്രൽ കൺവെർജുകളുടെ മൂല്യമാണെന്നും ഈ ലിമിറ്റ് നിലവിലില്ലെങ്കിൽ ഇന്റഗ്രൽ നിലവിലില്ല അല്ലെങ്കിൽ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നുവെന്ന് നമ്മൾ വിളിക്കുന്നു ഈ സാഹചര്യത്തിൽ മുമ്പത്തെ ഇന്റഗ്രൽ ഇവിടെ കാണിക്കുന്നതിനുപകരം b ആയിരുന്നു ഇപ്പോൾ ഇത് താഴ്ന്ന റേഞ്ച് ∞ നമ്മൾ പരിഗണിച്ചു അതിനാൽ വീണ്ടും നമുക്ക് ആദ്യത്തെ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രൽ ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ അതേ ആശയം ഇവിടെ ഉപയോഗിക്കും R മുതൽ വരെ നമ്മൾ ഏറ്റെടുക്കും എന്നിട്ട് ∞ യെ R കൊണ്ട്മാറ്റിസ്ഥാപിക്കും അതിനാൽ ഇപ്പോൾ ഈ ഇന്റഗ്രലിനെ ആദ്യം മുതൽ നമ്മൾ വിലയിരുത്തും ഈ ഇന്റഗ്രലിന്റെ മൂല്യനിർണ്ണയത്തിന് ശേഷം ലിമിറ്റ് R ലേക്ക് അടുക്കുന്നതായി എടുക്കും ഇത് വീണ്ടും ആദ്യത്തെ തരത്തിലുള്ള ഇന്റഗ്രൽ ആണെങ്കിൽ ഇവിടെ രണ്ട് ലിമിറ്റ്കളും ഉണ്ട് ∞ ∞ അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ഇന്റഗ്രലിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കും അതിനാൽക്ക് എടുത്തിട്ടുണ്ട് അതിനെകൊണ്ട് മാറ്റിസ്ഥാപിച്ചു ഈ ന് പകരം ∞ മാറ്റിസ്ഥാപിച്ചു എന്നിവ എടുത്തിട്ടുണ്ട് അതിനാൽ നമുക്ക് വീണ്ടും ഇവിടെ ഇന്റഗ്രൽ ഉണ്ട് കൂടാതെ വലതുവശത്തുള്ള ഈ ലിമിറ്റ്കൾ നിലവിലുണ്ടെങ്കിൽ ഈ ലിമിറ്റ് കൺവേർജ് ചെയ്യുന്നു വെന്ന് പറയുന്നു അല്ലെങ്കിൽ ഈ ഇന്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു അല്ലാത്തപക്ഷം ഇത് ഡൈവേർജന്റ് ഇന്റഗ്രൽ ആയിരിക്കും അല്ലെങ്കിൽ ഇന്റഗ്രൽ നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇവ രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്താൽ ൽ നിന്ന് ഇത് സമാനമാണെന്ന് എടുക്കാം അതിനാൽ ആദ്യ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രലുകൾ എങ്ങനെ വിലയിരുത്താമെന്ന് ഇപ്പോൾ നമ്മൾ ചെയ്യും ഉദാഹരണത്തിന് ഉണ്ട് അതിനാൽ ഈ 3 സാഹചര്യത്തിൽ നമ്മൾ നീക്കം ചെയ്യുകയും അതിനെ R ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുo അതിനാൽ R മുതൽ 2 മുതൽ R എന്ന ലിമിറ്റുകൾ ഇതിനെ ഭാഗിക ഭിന്നസംഖ്യകൾ ആക്കുമ്പോൾ ആയിരിക്കും അതിനാൽ ആയിരിക്കും അതിനാൽ ഇത് കൃത്യമായി ഉം ആയിരിക്കും ഭാഗിക ഭിന്നസംഖ്യകൾ ഇവിടെ ഉപയോഗിക്കാം അതിനാൽ ഇവിടെ ഉണ്ട് അതിനാൽന്റെ ഭാഗിക ഭിന്നസംഖ്യയും dx ടേമിനു അടിസ്ഥാനമായിട്ട് ആയിരിക്കും

ഉദാഹരണത്തിന് രണ്ടാമത്തേത് ഉണ്ട് ഈ സാഹചര്യത്തിലും സമാന തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ നമുക്ക് ഉണ്ട് ആയിത്തീരും തുടർന്ന് നമുക്ക് ലിമിറ്റ് 0 മുതൽ R വരെയുണ്ട് അതിനാൽ ഇത് ആയിരിക്കും കൂടാതെ ഈ കോസിനായി നമ്മൾ എടുക്കുമ്പോൾ ഈ ലിമിറ്റ് നിലവിലില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ രണ്ടാമത്തെ കേസിൽ ലിമിറ്റ് നിലവിലില്ല അല്ലെങ്കിൽ ഇന്റഗ്രൽ കൺവേർജ് ചെയ്യുന്നില്ല അതിനാൽ ആദ്യ സന്ദർഭത്തിൽ ഈ ഇംപ്റോപർ ഇന്റഗ്രൽ ഞങ്ങൾ ഇതിനെ കൺവെർജിന്റ് എന്ന് വിളിക്കുന്നു ഇതാണ് അതിന്റെ മൂല്യം രണ്ടാമത്തെ കേസിൽ ഈ ഇന്റഗ്രൽ ഇംപ്റോപർ ഇന്റഗ്രൽ കൺവേർജന്റ് അല്ല കാരണം ഈ ഇന്റഗ്രൽ നമ്മൾക്ക് വിലയിരുത്താൻ കഴിയില്ല ശരി രണ്ടാമത്തെ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രൽപോലുള്ളതാണ് a മുതൽ b വരെ അൺബൌണ്ടഡാണ് അതിനാൽ ഇവിടെ ഈ ലേക്ക് അടുക്കുമ്പോൾ f ആയി മാറുന്നുവെന്ന് കരുതുക അതിനാൽ x അപ്പർ ലിമിറ്റിലെത്തുമ്പോൾ ഈ f 0 ലേക്ക് കൺവേർജ് ചെയ്യുന്നു കൂടാതെ x b ലേക്ക് പോകുമ്പോൾ ഈ f ഇൻഫിനിറ്റിയിലേക്ക് നീളുന്നു ഈ എപ്സിലോൺ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തും അതിനാൽ ഇവിടെ എപ്സിലോൺ bയിൽ നിന്ന് കുറയ്ക്കുന്നു അതിനാൽ പ്രശ്നം ബിയിലാണ് അതിനാൽ ഇപ്പോൾ അസാധുവാക്കി x b ലേക്ക് നീങ്ങുമ്പോൾ f ഇൻഫിനിറ്റിയിലേക്ക് നീങ്ങുന്നു ഇപ്പോൾ ഇത് പ്രോപ്പർ ഇന്റഗ്രലാണ് ഇന്റഗ്രലിന്റെ വിലയിരുത്തലിനായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ വിലയിരുത്തുന്ന പ്രോപ്പർ ഇന്റഗ്രൽ ലിമിറ്റ് എപ്സിലോൺ മുതൽ 0 വരെ വലതുവശത്ത് അടുക്കും അതിനാൽ രണ്ടാമത്തെ സാഹചര്യത്തിൽ x a ലേക്ക് പോകുമ്പോൾ f ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു നിങ്ങൾ അതേ ആശയം തന്നെ ഉപയോഗിക്കും ഇവിടെ ഉപയോഗിക്കും അതിനാൽ വീണ്ടും ഇന്റഗ്രലിൽ പ്രശ്നം ഉണ്ടായിരുന്നിടത്ത് ഇത് ഒഴിവാക്കപ്പെടുന്നു പിന്നീട് ഈ ഇംപ്റോപർ ഇന്റഗ്രൽ വിലയിരുത്തുന്നതിന് പോസിറ്റീവ് വശത്ത് നിന്ന് 0 ലേക്ക് ഈ എപ്സിലോൺ സമീപനങ്ങൾ നമ്മൾ എടുക്കും രണ്ടാമത്തെ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രൽ വിലയിരുത്തൽ ab യിലെ ഒരു പോയിന്റ് ആയ cc യിലേക്ക് x അടുക്കുമ്പോൾ f അൺബൌണ്ടഡാവും രണ്ടാമത്തെ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രൽ ഈ സാഹചര്യത്തിൽ a മുതൽ c വരെ c മുതൽ b വരെ ഇന്റഗ്രലിനെ ബ്രേക്ക് ചെയ്യും പ്രശ്നം c ആയതിനാൽ c യിൽ നിന്ന് കുറയ്ക്കുന്നതിലൂടെ അത് ഒഴിവാക്കി അതിനാൽ നമുക്ക് ഉണ്ട് രണ്ടാമത്തെ കേസിൽ വീണ്ടും ഇന്റഗ്രൽ c to b ആയിരുന്നു പക്ഷേ നമുക്ക് c യിൽ പ്രശ്നമുണ്ട് അതിനാൽ നമ്മൾ എടുത്തു ആ പ്രശ്നവും നീക്കംചെയ്തു x→ax→b പോലെയുള്ള രണ്ടറ്റത്തും f→∞ എന്ന ഇന്റഗ്രൽ ഉണ്ട് അതിനാൽ ഇതും രണ്ടാമത്തെ തരത്തിലുള്ള ഇന്റഗ്രലാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ അവതരിപ്പിക്കുന്നതിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയും അതിനാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഉദാഹരണം എടുക്കും അവിടെ നമുക്ക് വീണ്ടും ഒരു പരാമർശം വിലയിരുത്താൻ കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ f രണ്ട് അറ്റത്തും ഇൻഫിനിറ്റിയിലേക്ക് അടുക്കുന്നു ഇവിടെ നിന്ന് മറ്റെവിടെയെങ്കിലും a മുതൽ c വരെയും പിന്നീട് c മുതൽ b വരെയും പോലെ നമുക്ക് ഈ ഇന്റഗ്രൽ ഭാഗിക്കാൻ കഴിയും തുടർന്ന് നമ്മൾ മുമ്പ് കൈകാര്യം ചെയ്ത ഇന്റഗ്രലുകൾ പോലെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് രണ്ട് വ്യത്യസ്ത ഇന്റഗ്രലുകൾ ഉള്ളത് നമ്മൾ ഒഴിവാക്കും ആദ്യത്തേത് നമ്മൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യും രണ്ടാമത്തേത് നമ്മൾ മുകളിൽ ചെയ്തതുപോലെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യും അതിനാൽ രണ്ടാമത്തെ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രലുകളെ എങ്ങനെ വിലയിരുത്താം ഉദാഹരണത്തിന് ഉണ്ട് ഇവിടെ x 1 ലേക്ക് അടുക്കുമ്പോൾ ഇന്റഗ്രൽ അൺബൌണ്ടഡ് ആയി മാറുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്തുചെയ്യും നമ്മൾ എടുക്കും അതിനാൽ ഫംഗ്ഷൻ അൺബൌണ്ടഡ് ആയി മാറുന്ന പോയിന്റ് 1 ϵ കൊണ്ട് നമ്മൾ മാറ്റിസ്ഥാപിച്ചു അതിനാൽ നമ്മൾ 0 മുതൽ 1 വരെ പോകുന്നില്ല പക്ഷേ 0 മുതൽ ലേക്ക് പോകുന്നു അതിനാൽ ഇവിടെ ഈ ഇന്റഗ്രൽ മൂല്യം എന്താണ് ഈ ഇന്റഗ്രൽ 0 മുതൽ കൂടാതെ നെ ഇന്റെഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കും അതിനാൽ ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു ഈ ഇന്റഗ്രലിന്റെ മൂല്യം 2 ആണ് രണ്ടാമത്തെ ഉദാഹരണം

അതിനാൽ ഫംഗ്ഷൻ അൺബൌണ്ടഡായ ഒരു പോയിന്റും നമ്മൾ ഒഴിവാക്കി ഇപ്പോൾ രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ ഇത് ഇന്റെഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നീട് നമ്മൾ ഈ ലിമിറ്റ് ഇതുപോലെ നൽകും ഒപ്പം അതിനാൽ അടിസ്ഥാനപരമായി നമുക്ക് ഇവിടെയുള്ള ഈ ഇന്റഗ്രൽ നോക്കാം

ഉദാഹരണത്തിന് ഇവിടെ പോസിറ്റീവ് വശങ്ങളിൽ നിന്നും ഈ മൂല്യങ്ങൾ ആദ്യം നമ്മൾ ഇവിടെ എഴുതുന്നു 0 ലേക്ക് പോകുന്നു ഇത് വീണ്ടും ആയിത്തീരും ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യ്യില്ല കാരണം നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നു അതിനാൽ നമ്മൾക്ക് 2 x ഉണ്ട് ഇത് ആണ് അതിനാൽ ഇവിടെ ഇതും ∞ക്ക് പോകുന്നു അതിനാൽ ഞങ്ങളുടെ ഇന്റഗ്രൽ ∞ ആയി മാറുന്നു ഇത് ആണ് അതിനാൽ ഇത് ഒത്തുചേരുന്നില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ മൂല്യം ലഭിക്കും അതായത് ഈ ഇന്റഗ്രൽ കൺവേർജ് ചെയ്യുന്നില്ല കാരണം ഇത് ∞ മൂല്യത്തിലേക്ക് പോകുന്നു അതായത് ഈ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു ഇന്റഗ്രൽ കൺവേർജ് ചെയ്യുന്നുണ്ടോ അതോ അവ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്താതെ എങ്ങനെ പരിശോധിക്കാം എന്നതിനെക്കുറിച്ച് അടുത്ത പ്രഭാഷണങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കും അവിടെ ഇന്റഗ്രൽ - I ഉപയോഗിക്കും ലിമിറ്റ് എടുക്കും അതിനാൽ നമ്മൾക്ക് ഈ ഇന്റഗ്രൽഉണ്ട് ഇത് ഒരു പോസിറ്റീവ് സംഖ്യയാണ് അതിനാൽ ഇവിടെ ഉണ്ട് അതിനാൽ നമ്മൾ ഇത് കൺവേർജ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ട് ഇത് 1 വരും അതിനാൽ എന്നിട്ട് p 1 അതിനാൽ 1 p യും വരും അതിനാൽ ഇത് a മുതൽ R വരെ ഇന്റഗ്രൽ ആണ് എന്നാൽ ഇത് p ≠ 1 എടുക്കുന്നതിന് തുല്യമാണ് കാരണം നമ്മൾ p 1 എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും ഇത് ഇവിടെ x ന്റെ ലോഗരിതമിക് ആണ് തുടർന്ന് നമ്മൾ ലിമിറ്റ് എടുക്കും അതിനാൽ p 1 ആയിരിക്കുമ്പോൾ രണ്ട് സാധ്യതകൾ ഉണ്ടാകും ഇത് ഇന്റഗ്രലും ഇവിടെ അപ്പർ ലിമിറ്റ് R പവർ p 1 എന്ന് എടുക്കാം കൂടാതെ നമുക്ക് ലോവർ ലിമിറ്റ് a എന്ന് വയ്ക്കാം അപ്പോൾ നമ്മൾക്ക് ഈ ഇന്റഗ്രൽ ഇവിടെ ലഭിക്കും അതിനാൽ p 1 ന് നമുക്ക് ഉണ്ട് രണ്ടാമത്തെ കേസിൽ p ≠ 1 ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടും അതിനാൽ ഇവ a മുതൽ R വരെയുള്ള ഇന്റഗ്രൽ വാല്യൂ എടുക്കുമ്പോൾ എന്തുസംഭവിക്കുമെന്ന് ഇപ്പോൾ ഇവിടെ കാണാം അതിനാൽ അടിസ്ഥാനപരമായി ടെസ്റ്റ് ഇന്റഗ്രലിനെക്കുറിച്ച് നമ്മൾക്ക് താൽപ്പര്യമുണ്ട് അതായത് നമ്മൾ ഇത് ഇതിനകം വിലയിരുത്തിയിട്ടുണ്ട് ടെസ്റ്റ് ഇന്റഗ്രലിനായി ഉപയോഗിക്കുന്ന ഒരു ഇന്റഗ്രൽ കൂടി നമ്മൾക്ക് ഉണ്ട് ഇതിനെ ടെസ്റ്റ് ഇന്റഗ്രൽ II എന്ന് വിളിക്കുന്നു ഇന്റഗ്രൽ a ϵ മുതൽ b വരെ കണക്കാക്കുന്നു ഇവിടെ x → a ആവുമ്പോൾ ഇത് ഇൻഫിനിറ്റി ആയി മാറുന്നു അതുകൊണ്ട് അൺബൌണ്ടഡാണ് നമുക്ക് രണ്ടാമത്തെ തരത്തിലുള്ള ഇന്റഗ്രൽ ഉണ്ട് വീണ്ടും കണ്ടുപിടിക്കും അതേ ആശയം തന്നെ കിട്ടും നമ്മൾക്ക് ഉണ്ട് അത് നമുക്ക് ഇന്റെഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ വീണ്ടും രണ്ട് കേസുകൾ ഉണ്ടാകും p 1 ആയിരിക്കുമ്പോൾ നമുക്ക് ഈ ലഭിക്കും ഇത് എന്ന് കിട്ടും p ≠ 1 ആകുമ്പോൾ ആയിരിക്കും ഇന്റഗ്രൽ ഇപ്പോൾ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കേസ് വീണ്ടും ചർച്ച ചെയ്യും

അതിനാൽ ഇത്തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രലിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ചചെയ്തു ന്റെ ഒന്നോ അതിലധികമോ പോയിന്റുകളിൽ f അൺബൌണ്ടഡ്ആയ ഒരു സാഹചര്യമുണ്ടാകാമെന്നും നമ്മൾ കണ്ടു അതിനാൽ ഈ സാഹചര്യത്തിലും ഇത് രണ്ടാമത്തെ തരത്തിലുള്ള ഇംപ്റോപർ ഇന്റഗ്രലാണ് അടിസ്ഥാനപരമായി ആ ലിമിറ്റ് ഉപയോഗിച്ച് ആ ഇന്റഗ്രലുകളെ എങ്ങനെ വിലയിരുത്താമെന്ന് അവർ കണ്ടു അതിനാൽ ഇത് ആദ്യ തരത്തിലുള്ളതാണെങ്കിൽ ഈ അനന്തത താഴത്തെ ശ്രേണിയിലായാലും മുകളിലുള്ളവയിലായാലും നിങ്ങൾ ഒരു പരിമിത സംഖ്യ R ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും പിന്നീട് നമ്മൾ ഇന്റഗ്രലിനെ വിലയിരുത്തും അതിനുശേഷം ലിമിറ്റ് R യിലേക്ക് തുടരുന്ന്ത് വിലയിരുത്തും രണ്ടാമത്തെ സാഹചര്യത്തിൽ ഫംഗ്ഷൻ അൺബൌണ്ടഡ് ആയ ഘട്ടത്തിൽ ഒരു ചെറിയ സംഖ്യ എപ്സിലോൺ അവതരിപ്പിക്കുന്നു അത് പിന്നീട് 0 ലേക്ക് നീങ്ങും അതിനാൽ നമുക്ക് ആ ഇന്റഗ്രലുകളെ വിലയിരുത്താൻ കഴിയും എന്നാൽ അടുത്ത പ്രഭാഷണത്തിൽ ഇന്റഗ്രൽ സംയോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താതെ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് കാണാം അതിനാൽ ഈ ലെക്ചറുകൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവിടെയുണ്ട് വളരെയധികം നന്ദി